ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് പ്രൊഫസർ Varadraj Bapat സ്കൂൾ ഓഫ് മാനേജ്മെൻറ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് എല്ലാവർക്കും നമസ്കാരം ഇത് ഫിനാൻഷ്യൽ അക്കൌണ്ടൻസി സംബന്ധിച്ച് രണ്ടാമത്തെ സെക്ഷൻ ആണ് ഒന്നാമത്തെ സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്നു വിചാരിക്കുന്നു ഒന്നാമത്തെ സെഷനിൽ ഫിനാൻഷ്യൽ അക്കൌണ്ടൻസി യെ സംബന്ധിച്ച് ചില തുടക്ക ആശയങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു പിന്നെ ഫിനാൻഷ്യൽഅക്കൌണ്ടിംഗ്Cost അക്കൌണ്ടിംഗ് മാനേജ്മെൻറ് അക്കൌണ്ടിംഗ് തുടങ്ങിയവയെപ്പറ്റി ചർച്ച ചെയ്തു കഴിഞ്ഞു അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് കളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത് അടിസ്ഥാനപരമായി ഫിനാൻഷ്യൽസ്റ്റേറ്റ്മെൻറ്കൾ മണി സൈക്കിളിൽ നിന്നാണ് ഉടലെടുക്കുന്നത് ദയവായി സൈഡിലേക്ക് നോക്കിയാലും ഒരു സാധാരണക്കാരൻറെ കാഴ്ചപ്പാടിൽ മണി സൈക്കിൾ എന്താണ് എന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നോട് ക്ഷമിച്ചാലും അതും തുടർന്നു വരുന്ന സെഷനുകളിൽ വിശദമായവിധേയമാക്കാം എന്താണ് മണി സൈക്കിൾ ആദ്യം പണം സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ സ്ഥാപനത്തിൽനിന്ന് തിരിച്ചു പണമുണ്ടാക്കുന്നു പണം കൊണ്ടുവരുന്ന സ്റ്റേജിലും RAM MATERIALS വാങ്ങിക്കുന്ന സ്റ്റേജിലും ചിലവുകൾ വരുന്നു പിന്നെ വിൽപ്പനയുടെ സമയത്ത് നിങ്ങൾക്ക് വരുമാനമായി പണം തിരിച്ചു കിട്ടുന്നു ഈ മണി സൈക്കിളിൽനിന്ന് രണ്ട് പ്രധാനപ്പെട്ട Financial Statements ഉരുത്തിരിഞ്ഞു വരുന്നു എന്നു കാണുവാൻ സാധിക്കും ഒന്നാമത്തേത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ട് രണ്ടാമത്തേത് ബാലൻസ് ഷീറ്റ് നിങ്ങളുടെ വരവുകളും ചിലവുകളും രേഖപ്പെടുത്തുന്ന അക്കൌണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ട് അതെ സമയം ബിസിനസ് ASSETS ഉം ബാധ്യതകളും രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് ബാലൻസ് ഷീറ്റ് ബിസിനസ്നിൻറെ വിഭവങ്ങളെ അസറ്റ് എന്നും ഉം ആ വിഭവങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളെ ബാധ്യതകൾ എന്ന് വിളിക്കുന്നു സ്ലൈഡുകൾ നോക്കൂ ആദ്യം കാണുന്നത് Fixed Assets ആണ് ആവശ്യമായ Infrastructure പ്രധാനം ചെയ്യുന്ന വസ്തുക്കളാണ് Fixed Assets അത് ലാൻഡ് ആയിരിക്കാം ബിൽഡിങ് ആയിരിക്കാം വണ്ടികൾആയിരിക്കാം സോഫ്റ്റ്വെയർ ആയിരിക്കാം Patents ആയിരിക്കാം ഇതെല്ലാംFixed Assets ആണ് എന്താണ് Current Assets പണമായി മാറ്റാവുന്നAssets നെCurrent Assets എന്നു വിളിക്കുന്നു അല്ലെങ്കിൽ മണിസൈക്കിളിൽ കൂടിയുള്ള ഉള്ള സഞ്ചാരത്തിനിടയിൽ പണമായി മാറ്റാവുന്ന Assets നെCurrent Assetsഎന്നു വിളിക്കുന്നു അതിൽ സ്റ്റോക്കുണ്ട് Cash ബാലൻസ് ഉണ്ട് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള ഉള്ള പണം ഉണ്ട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ് ഡിപ്പോസിറ്റ് ഉണ്ട് ഇതെല്ലാം Current Asset ആണ് Huamn Assets പ്രധാനപ്പെട്ടതാണ് എന്നാൽ അത് കാണിക്കുവാൻ സാധിക്കില്ല ബാലൻസ് ഷീറ്റ് ഇൻറെ Liability സൈഡിലേക്ക് നോക്കിയാൽ പ്രധാനമായും നമുക്ക് കാണുവാൻ പറ്റുക ക്യാപിറ്റൽആണ് അതുപോലെ Borrowings and Current Liabilities എന്നിവ യാണ് ഉടമസ്ഥൻ ബിസിനസ്സിൽ കൊണ്ടുവന്ന പണമാണ് ക്യാപിറ്റൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ലോൺ ആണ് Borrowings മണി സൈക്കിളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് Current Liabilities നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുക്കുവാൻ ഉണ്ടെങ്കിൽ അത് Current Liabilities ആണ് നിങ്ങൾ Raw Materilas വാങ്ങിച്ചിട്ട് പണം ഉടനെ കൊടുത്തിട്ടില്ലെങ്കിൽ എങ്കിൽ അത് Current Liabilities ആണ് അതുപോലെ അടയ്ക്കാത്ത ഇലക്ട്രിസിറ്റി ബില്ല് Current Liabilities ആണ് നിങ്ങൾ Slide ഇൻറെഅടി വശത്തേക്ക് വശത്തേക്ക് നോക്കുമ്പോൾ ഈ രണ്ടു സ്റ്റേറ്റ്മെൻറ് കളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കും ബാലൻസ് ഷീറ്റ്ഒരു സ്ഥാപനത്തിൻറെ സാമ്പത്തികസ്ഥിതി കാണിക്കുന്ന Statementആണ് അതേസമയംപ്രോഫിറ്റ് ആൻഡ് ലോസ് എക്കൌണ്ട് സ്ഥാപനത്തിൻറെ ലാഭക്ഷമത കാണിക്കുന്ന അക്കൌണ്ടാണ് ബാലൻസ് ഷീറ്റിൽനിങ്ങളുടെ കൈവശമുള്ള മൊത്തം Assets നിങ്ങളുടെ മൊത്തം ബാധ്യതഎന്നിവയാണ് കാണിക്കുന്നത് അത് ഒന്നുകിൽ ഒരുമാസത്തെ അവസാനം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷാവസാനം ആയിരിക്കാം എന്തുതന്നെയായാലും മൊത്തം Assetsകളും ബാധ്യതകളും ആണ് ബാലൻ ഷിറ്റ് കാണിക്കുന്നത് നിങ്ങൾ 10 വർഷം മുന്നേ വാങ്ങിച്ച് ഭൂമി വിറ്റ് ഇട്ടില്ലെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽകാണിക്കണം നിങ്ങളുടെ എല്ലാ Assetsഉം തുടർച്ചയായി ബാലൻസ് ഷീറ്റിൽകാണിക്കണം അതുപോലെ നിങ്ങളുടെ എല്ലാ ബാധ്യതകളും ബാലൻസ് ഷീറ്റിൽ കാണിക്കണം നിങ്ങൾക്ക് നാലു കൊല്ലം മുന്നേ ലഭിച്ച ഒരു വായ്പ ബാലൻസ് ഷീറ്റിൽകാണിക്കണം നിങ്ങൾ തിരിച്ചടക്കാത്ത വായ്പ ആണെങ്കിൽ നാലു കൊല്ലം മുന്നേ വാങ്ങിച്ച് വായ്പ തീർച്ചയായും ബാലൻസ് ഷീറ്റിൽകാണിക്കണം വായ്പയിൽ ഇനിയും തിരിച്ചടയ്ക്കാൻ ഉള്ളതാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് പ്രോഫിറ്റ്ലോസ്സ്റ്റേറ്റ്മെൻറ് നിങ്ങളുടെ വരുമാനമാണ് കാണിക്കുന്നത് ഒന്നുകിൽ ഒരു Quarter അവസാനം അല്ലെങ്കിൽ ഒരു വർഷത്തിന് അവസാനമാണ് ഈസ്റ്റേറ്റ്മെൻറ് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഒരു മാസം ലാഭംഉണ്ടെങ്കിൽ ആ മാസം ലാഭം അല്ലെങ്കിൽ നഷ്ടം കാണിക്കണം എന്നാൽ അടുത്തവർഷം കാണിക്കേണ്ട ആവശ്യമില്ല ഒരു കാലഘട്ടത്തിലെസ്ഥാപനത്തിൻറെ Performance കാണിക്കുന്നത് Accumulative performance കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ബിസിനസ് ആരംഭിച്ച സമയത്ത് നിങ്ങളുടെ Assets ഉം ബാധ്യതകളും തമ്മിൽ മാച്ച് ചെയ്യും എന്നാൽ എല്ലാ സമയത്തും നിങ്ങളുടെ Assets ഉം ബാധ്യതകളുംതമ്മിൽ മാച്ച് ചെയ്യുമോ നിങ്ങൾ ബിസിനസ് ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റ്മാച്ച് ചെയ്യുമോ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് നിങ്ങളുടെ ASSETSമെല്ലെമെല്ലെ കൂടിക്കൊണ്ടിരിക്കും ഒരുപക്ഷേബാധ്യതകൾ താഴേക്ക് വരികയാണ് ചെയ്യുക എന്നിട്ടും എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് മാച്ച്ചെയ്യുന്നത് നിങ്ങൾ ബാലൻസ്ഷീറ്റ് നോക്കുക നിങ്ങൾ ബിസിനസ് നല്ലപോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് കൂടും നിങ്ങളുടെ Receivablesകൂടും നിങ്ങളുടെ കൈവശമുള്ള പണത്തിന് അളവ് കൂടും അതേസമയം ബാധ്യതകൾ കൂടുന്നുണ്ടോ നിങ്ങൾക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും ലോൺ ബാലൻസ് താഴേക്ക് വരും Raw Materials വാങ്ങിക്കുമ്പോൾ സമയാസമയങ്ങളിൽ പണം കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ബാധ്യതകൾ താഴേക്കു വരും എന്നിട്ടും എങ്ങനെയാണ് മൊത്തം Assetsഉം Liabilities ഉം തമ്മിൽ മാച്ച് ആവുന്നത് Is any item missed out in the given assets or liabilities which should be there Actually very important item is known as reserves which was not shown earlier but I am just showing it now to highlight it or bring your attention to it So what will happen is after say 1 year you have made some profit in profit and loss account that profit either is taken away by the owners it is their profit they can take it away but mostly owners do not take away the whole of profit they may take some money remaining money is accumulated in the business in the form of reserves ഏതെങ്കിലും Assets and Liabilities ബാലൻസ് ഷീറ്റിൽ കാണിക്കാതെ വിട്ടു പോയിട്ടുണ്ടോ നിങ്ങൾക്ക് ലാഭം ഉണ്ടായാൽ ആ ലാഭം നിങ്ങൾ എടുക്കും നിങ്ങൾക്ക് എടുക്കാം അധികം ഉടമസ്ഥരും ബിസിനസിലെ ലാഭം കൊണ്ട് പോകുന്നില്ല അത് ബിസിനസ്സിൽ തന്നെ കിടക്കുന്നു ഇതിനെയാണ് Reserves എന്ന് വിളിക്കുന്നത് Reserves കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകഴിഞ്ഞു Assets കൂടുമ്പോൾ External Laibilitiesകൂടുന്നില്ല വാസ്തവത്തിൽ അതു കുറയുകയാണ് ചെയ്യുന്നത് ആയതിനാൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു ഇതിനെയാണ് Reserves എന്ന് വിളിക്കുന്നത് ഒരു ആരോഗ്യമുള്ള ബിസിനസ് മുന്നോട്ടു പോകുമ്പോൾ ആ ബിസിനസ്സിൽ Reservesകൂടി കൂടി വരുന്നു നിങ്ങൾ ഒരു പഴയ ബാലൻസ് ഷീറ്റും ഒരു പുതിയ ബാലൻസ് ഷീറ്റുംഎടുത്താൽ നിങ്ങൾക്ക് Reserve പൊസിഷൻ മനസ്സിലാക്കുവാൻ സാധിക്കും ഓരോ കൊല്ലവും ഉണ്ടാവുന്ന ലാഭം Reserves ആയി കൂടിക്കൂടി വരുന്നു ഓരോ കൊല്ലം ഉണ്ടാകുന്ന ലാഭം ബിസിനസ് നിന്ന് എടുക്കുന്നില്ലെങ്കിൽ Reserves ആയികൂടി കൂടി വരുന്നു അത് കമ്പനിയുടെ നല്ലൊരു സാമ്പത്തികസ്ഥിതി കാണിക്കുന്നത് ചില കമ്പനികൾക്കു വളരെയധികം Reserves ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ ബ്ലൂചിപ്പ് കമ്പനികളെ പറ്റി കേട്ടുകാണും നല്ല പല കമ്പനികളുടെയും Reservesവളരെ അധികമാണ് നിങ്ങളുടെ കമ്പനിക്ക് നല്ല Reserves ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിനെയും മറ്റേതെങ്കിലും സാമ്പത്തിക സ്ഥാപനങ്ങളെയും വായ്പയ്ക്കു വേണ്ടി ആശ്രയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള Reserves ഉപയോഗപ്പെടുത്തിയാൽ മതി എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സാമ്പത്തികസ്ഥിതി കാണിക്കുന്നതിനുള്ള ബാലൻസ് ഷീറ്റ് വയ്ക്കുവാൻ സാധിക്കും ഒരു വർഷത്തിന് അവസാനമാത്രമല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബാലൻസ് ഷീറ്റ് വയ്ക്കാവുന്നതാണ് ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അവതരിപ്പിച്ചിരിക്കുന്നു നോക്കുക ഏറ്റവുമാദ്യം കാണിച്ചിരിക്കുന്നത് Owners Fundsആണ് എന്താണ് Owners Funds ആദ്യം ക്യാപ്പിറ്റൽ നെപ്പറ്റി പഠിച്ചു പിന്നെന് Reservesനെപ്പറ്റി പഠിച്ചു ഇതുരണ്ടും കൂടിച്ചേർന്നാൽOwners Fundsആണ് ഉടമസ്ഥൻ ബിസിനസ്സിൽ കൊണ്ടു വരുന്ന പണമാണ് ക്യാപിറ്റൽ ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അത് കൂടിച്ചേരുമ്പോൾ Reservesഉണ്ടാകുന്നു ക്യാപിറ്റൽ നിൻറെകൂടെ Resrves കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്Owners Funds അതാണ് ബാലൻസ് ഷീറ്റിലെ ഒന്നാമത്തെ ഇനം രണ്ടാമത്തെ ഇനം Noncurrent Liabilities ആണ് അത് borrowings സ്വഭാവമുള്ള ബാധ്യതകളാണ് മൂന്നാമത്തെ ഐറ്റം Current Liabilities ആണ് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു അവസാനിപ്പിക്കേണ്ട ബാധ്യതകളാണ് നിങ്ങളുടെ ജോലിക്കാർക്ക് ഒരു മാസത്തെ അവസാനം ശമ്പളം കൊടുക്കണം എന്നാൽ ജോലിക്കാർക്ക് ഒരു മാസത്തെ അവസാനം ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിൽ അത് Current Liabilities ആണ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട് ഓഫീസ് ചിലവുകൾ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതും Current Liabilities തന്നെയാണ് ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്തു അവസാനിപ്പിക്കേണ്ട എല്ലാ ബാധ്യതകളെയും Current Liabilitiesഎന്നു അനു വിളിക്കുന്നു ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്ത അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അതിനെ Noncurrent Liabilities എന്നു വിളിക്കുന്നു Current Liabilities ഉം Noncurrent Liabilities External liabilities ആണ് Owners Funds internal liability ആണ് ഇനി ബാലൻസ് ഷീറ്റ് Asset Sideനോക്കുക ഒന്നാമത്തെ ഐറ്റം Fixed Assetsആണ് അതു ബിസിനസ് നിൻറെദീർഘകാല ആവശ്യങ്ങൾക്ക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ച്ചർ ആണ് പിന്നീട് കാണിക്കുന്ന item നോൺ കറണ്ട് ഇൻവെസ്റ്റ് മെൻറ് ആണ് ഏറ്റവും അവസാനം കാണിക്കുന്നത് Current Asset ആണ് എന്താണ് Current Assets ഒരു കൊല്ലത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റുന്ന Assetsനെ വിളിക്കുന്ന പേരാണ് Current Assets ഒരു കൊല്ലത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാത്ത Assetsനെ വിളിക്കുന്ന പേരാണ്Non Current Assets എന്താണ്നോൺകറൻറ്റ്Investment എന്താണ്Investment നിങ്ങൾ ബിസിനസ്സിലെ പണം ബിസിനസിന് പുറമേ എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ അതിനെ ഇൻവെസ്റ്റ്മെൻറ് എന്ന് വിളിക്കുന്നു നിങ്ങൾ ബിസിനസ് നിന്ന് ലഭിച്ച തുക ബിസിനസ് അല്ലാതെ മറ്റെവിടെയെങ്കിലും ഒരു കൊല്ലത്തിലധികം കാലാവധി ആയി നിക്ഷേപിച്ചാൽ അതിനെയാണ് NonCurrent Investment എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണം ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്കു ബാങ്കിൽ ഒരു കൊല്ലത്തിലധികം കാലാവധി കാലാവധിയുള്ളനിക്ഷേപം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ NonCurrent Investmentആണ് ബാങ്കിൽ ഒന്നിലധികം കൊല്ലത്തേക്ക് സ്ഥിരനിക്ഷേപം ഇട്ടാൽ NonCurrent Investmentആണ് അതുപോലെ മറ്റു കമ്പനികളുടെ ഷെയർ നിങ്ങൾ വാങ്ങിച്ചാൽ NonCurrent Investmentആണ് NonCurrent Investment കൂടാതെയും NonCurrent Assets ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് ബാലൻ ഷീറ്റിൽകാണിക്കുക അടുത്ത session മുതൽ ബാലൻസ് ഷീറ്റിലെ യും പ്രോഫിറ്റ് ലോസ്അക്കൌണ്ടിലെ യുംഓരോ ഇനങ്ങളായി എടുത്തു വിശദമായി ചർച്ച ചെയ്യാം എവിടുന്നാണ് ഈ വിവരങ്ങളെല്ലാം ലഭിക്കുക ഇൻഫർമേഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി ആനുവൽ റിപ്പോർട്ട് നോക്കലാണ് എല്ലാ കമ്പനികൾക്കും ആനുവൽ റിപ്പോർട്ട്ഉണ്ടാകും ആ ആനുവൽ റിപ്പോർട്ടിൽ ഫിനാൻഷ്യൽ Statements അടങ്ങിയിരിക്കും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ആയ ബാലൻ ഷീറ്റ്പ്രോഫിറ്റ് ലോസ്അക്കൌണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് തുടങ്ങിയവ ആനുവൽ റിപ്പോർട്ടിൽഉണ്ടായിരിക്കും കൂടാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അനാലിസിസ് chairman's statements auditor's report report on corporate governance consolidated financial statements management discussion and analysisതുടങ്ങിയവ ആനുവൽ റിപ്പോർട്ടിൽഉണ്ടായിരിക്കും ഒരു കൊല്ലം 60 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന എംപ്ലോയീസ് വിവരങ്ങളും ആനുവൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും ഒരു ഒരു പക്ഷേ നിങ്ങളുംആഗ്രഹിക്കും ഒരുവർഷം 60 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം വാങ്ങിക്കുവാൻ ഇങ്ങനെ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തികളുടെ പരിചയം യോഗ്യത എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ആനുവൽ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഏതെങ്കിലും കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട് ഡൌൺലോഡ് ചെയ്യുക ദയവായി ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് ഡൌൺലോഡ് ചെയ്യുക വായിക്കുക ആ സമയത്ത് ബാലൻസ്ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ട് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ് എന്നിവയെപറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ സെഷൻ ഒരു ചെറിയ സെഷൻ ആയിരുന്നു ഇനി മൂന്നാമത്തെ സെക്ഷൻ മുതൽ ഡീറ്റെയിൽസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് കളുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരിക്കും